ഇനി നമുക്ക് കോപ്പിറൈറ്റിൻറെ അഥവാ പകർപ്പവകാശത്തിൻറെ ഉത്ഭവ വികാസ പരിണാമങ്ങളെ കുറിച്ച് പഠിക്കാം നിർമ്മാതാക്കൾക്ക് അവരുടെ വർക്കിൽ നിന്നും ലാഭം ഉണ്ടാക്കേണ്ട ആവശ്യകതയിൽ നിന്നാണ് കോപ്പിറൈറ്റ് ഉത്ഭവിക്കുന്നത് കോപ്പിറൈറ്റ് ചരിത്രത്തിലേക്ക് കടന്നുവരുന്നതിന് കാരണം ഒരാളുടെ വർക്കിൽ നിന്നും മറ്റ് ആളുകൾ ലാഭമുണ്ടാക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉദാഹരണത്തിന് ഈ വിഷയത്തിൽ ആദ്യം സംഭവിച്ചത് ആദ്യകാലങ്ങളിൽ ചില ആളുകളുടെ വർക്കുകൾ സാഹിത്യചോരണം വഴി അതായത് പ്ളാജിയറിസം വഴി മറ്റ് ആളുകൾ പകർപ്പെടുത്ത് തന്റേതെന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പ്ളാജിയറിസം എന്ന വാക്ക് വരുന്നത് പ്ളാജിയാറീസ് എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് അതിനർത്ഥം കിഡ്നാപ്പർ തട്ടിയെടുക്കുന്ന ആൾ ഒരാളുടെ വസ്തു വേറൊരാൾ തട്ടിയെടുക്കുന്ന അവസ്ഥ പൈറസിയും അഥവാ വ്യാജ ഗ്രന്ഥ നിർമ്മാണവും കോപ്പിറൈറ്റ് നിലവിൽ വരുന്നതിന് ഒരു പ്രധാന പങ്കു വഹിയ്ക്കാൻ കാരണമായിട്ടുണ്ട് പൈറസി എന്ന് പറഞ്ഞാൽ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയുടെ കൊള്ളയടിക്കൽ എന്നാണർത്ഥം ഇതിൽ അനുവാദമില്ലാത്ത അല്ലെങ്കിൽ ആധികാരികമല്ലാത്ത വിതരണവും കളവുംമോഷണവും റീപ്രൊഡക്ഷൻ അഥവാ പുനർനിർമ്മാണവും അവതരണവും സ്റ്റോറേജും വിൽപനയും എല്ലാം ഉൾപ്പെടുന്നു പൈറസി എന്ന വാക്ക് വരുന്നത് പൈറേറ്റ് എന്ന പദത്തിൽ നിന്നാണ് അതിൻറെ അർത്ഥം കടൽക്കൊള്ള എന്നാണ് പൈറസിയും പ്ളാജിയറിസവും കോപ്പിറൈറ്റ് നിയമവ്യവസ്ഥയിൽലേക്ക് നയിച്ച രണ്ട് വിശാലമായ വിഷയങ്ങളാണ് പകർപ്പവകാശ നിയമത്തിൻറെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ ആകർഷകമായ ഒരു ചരിത്രമാണ് സംസ്കാരത്തിൻറെ വളർച്ച പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചരിത്രം വേറൊരു വീക്ഷണകോണിലൂടെ കാണുവാൻ സാധിക്കും പകർപ്പവകാശത്തിൻറെ നിയമപരമായ സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് പിന്നെയും മറ്റൊരു ഒരു വീക്ഷണ കോൺ ആണ് നമുക്ക് നൽകുക അതുകൊണ്ടുതന്നെ പകർപ്പവകാശത്തിന് വ്യത്യസ്തങ്ങളായ ചരിത്രമാണുള്ളത് വിശാലമായ ഏകീകരണം എന്ന് പറയുന്നത് കോപ്പി റൈറ്റ് നിയമം യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് വന്നു എന്ന് പറയുന്നിടത്താണ് യുണൈറ്റഡ് കിങ്ഡത്തിൽ സംഭവിച്ച ചില സംഭവങ്ങളും വസ്തുതകളും ആണ് പകർപ്പവകാശ നിയമത്തിന്റെയും അതിന്റെ മാനദണ്ഡങ്ങളുടെയും രൂപീകരണത്തിലേക്ക് നയിച്ചത് ആരംഭ കാലങ്ങളിൽ യുണൈറ്റഡ് കിങ്ഡത്തിൽ മതപരമായ ഗ്രന്ഥങ്ങൾ കൈ കൊണ്ടാണ് എഴുതി നിർമ്മിച്ചിരുന്നത് അത് ചിത്രങ്ങളോട് കൂടിയ ഗ്രന്ഥങ്ങൾ ആയിരുന്നു അതുകൊണ്ടുതന്നെ അവയുടെ നിർമ്മാണത്തിൽ അത്യധികമായ അധ്വാനവും പരിശ്രമവും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ നിർമ്മിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ പകർപ്പ് എടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വസ്തുതയായിരുന്നു കാരണം പകർപ്പ് എടുക്കണമെങ്കിൽ ആ വ്യക്തിക്കും കലാപരമായ കഴിവുകൾ ഉണ്ടാകുക ആവശ്യമായിരുന്നു ഈ മതഗ്രന്ഥങ്ങൾ ആകട്ടെ ചെറിയ ഒരു സമൂഹത്തെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതായിരുന്നു മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരെ ഉദ്ദേശിച്ചു കൊണ്ട് മാത്രം ഇങ്ങനെ എഴുതപ്പെട്ട പുസ്തകങ്ങൾ ഒരു ചെറിയ സമൂഹത്തെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ളതായിരുന്നു പുസ്തകങ്ങളുടെ പ്രത്യേകമായ രൂപകൽപ്പനയും അവയിലുള്ളടങ്ങിയിരുന്ന ചിത്രങ്ങളും ഒരു വിധത്തിൽ ആ പുസ്തകങ്ങൾക്ക് പ്രൊട്ടക്ഷൻ അഥവാ സംരക്ഷണം നൽകിക്കൊണ്ടിരുന്നു അന്നത്തെ ആ കാലങ്ങളിൽ ഇന്നുള്ളതുപോലെ സാക്ഷരത അത്ര എല്ലാവരിലും എല്ലായിടത്തും എത്തിപ്പെട്ടിരുന്നില്ല എന്നുള്ളതിനാൽ ഇങ്ങനെ കോപ്പിറൈറ്റ് ചെയ്ത് പുസ്തകങ്ങൾ സംരക്ഷിക്കുക എന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല മാത്രമല്ല പ്രധാനമായും ഈ പുസ്തകങ്ങൾ മതപരമായ പുസ്തകങ്ങളായിരുന്നു എന്നാൽ ഗുട്ടൻബർഗ് കണ്ടുപിടിച്ച മൂവബിൾ പ്രിൻറിംഗ് പ്രസ്സും കാക്സ്റ്റൺൻറെ പ്രിൻറിംഗ് പ്രസ്സും സംഗതികൾ മാറ്റിമറിച്ചു ഈ രണ്ടു കണ്ടുപിടിത്തങ്ങളും വലിയതോതിലുള്ള അച്ചടിയിലേക്ക് നയിച്ചു അതായത് ഈ രണ്ടു കണ്ടുപിടിത്തങ്ങളിലൂടെ അച്ചടി വളരെയധികം ജനകീയമായി അതുകൊണ്ടുതന്നെ അച്ചടിയേയും വിതരണത്തെയും അനുകൂലിക്കുന്ന അഥവാ സഹായിക്കുന്ന പല നിയമങ്ങളും അതേത്തുടർന്ന് ഉണ്ടായി അച്ചടിക്കുക എന്നുള്ളത് വിശേഷ ആനുകൂല്യമോ കുത്തകയോ ഒക്കെ ആയി മാറി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പൈറസിയും പ്ളാജിയറിസവും മൂലം ഈ വിശേഷ ആനുകൂല്യം തെരഞ്ഞെടുക്കപ്പെട്ട ഒരുകൂട്ടം ആളുകൾക്ക് നൽകപ്പെട്ടു ഈ രണ്ട് സാങ്കേതിക സംവിധാനങ്ങളും നിലവിൽ വന്നപ്പോൾ അച്ചടിക്കുക എന്നത് വളരെ സ്വതന്ത്രമായി ചെയ്യാവുന്ന ഒരു സംഗതിയായി മാറുകയും വളരെയധികം നിയന്ത്രണങ്ങളില്ലാതെ തന്നെ പുസ്തകങ്ങൾ അച്ചടിക്കാൻ സാധിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ മതപരമായ പുസ്തകങ്ങൾ അച്ചടിക്കുന്നത് നിയന്ത്രിക്കേണ്ടതായി വന്നു അച്ചടിക്കുന്നതിന് മുൻപ് പുസ്തകങ്ങൾക്ക് മതാധികാരികളുടെ അനുമതി ലഭിക്കുക ആവശ്യമായി വന്നു അല്ലാത്തപക്ഷം ചിലപ്പോൾ ആ പുസ്തകങ്ങൾ വെറുതെ അപ്രമാണികമോ അഥവാ കെട്ടിച്ചമച്ചവയോ അല്ലെങ്കിൽ ദൈവദൂഷണപരമോ ആകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഹെൻട്രി എട്ടാമൻ രാജാവ് ഇംഗ്ലണ്ടിലേക്ക് പുസ്തകങ്ങളുടെ ഇറക്കുമതി നിരോധിച്ചു കൊണ്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നു കാരണം ഇതിനോടകം തന്നെ ലോകത്തെല്ലായിടത്തും അച്ചടിവിദ്യ ജനകീയമായി കഴിഞ്ഞിരുന്നു ഇത് പുസ്തകങ്ങളിലെ പകർപ്പുകൾ ഉണ്ടാക്കുന്നതിലേക്ക് നയിച്ചു ഒരു തരത്തിലുള്ള ആധികാരികത ഉറപ്പു വരുത്തുന്നതിനു വേണ്ടി മതപരമായ പുസ്തകങ്ങൾ അച്ചടിക്കുന്നതിന് നിരോധനം ഉണ്ടായിരുന്നു അത്തരം പുസ്തകങ്ങൾ അച്ചടിക്കാനുള്ള അവകാശം സ്റ്റേഷനേഴ്സ് കമ്പനിക്ക് കൊടുത്തു കമ്പനി ആദ്യം ഒരു ഗിൽഡ് ആയിരുന്നു പിന്നീട് ഒരു സമൂഹമായി ആയി എന്നാൽ അതിനുശേഷം അവർ പുസ്തകങ്ങൾ അച്ചടിക്കുന്നത് ഒരു ജോലിയായി ഏറ്റെടുക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ രാജാവ് ഈ കമ്പനിക്ക് അച്ചടിക്കാനുള്ള വിശേഷ അധികാരം നൽകി അങ്ങനെ ഈ കമ്പനിക്ക് അച്ചടിയിലിള്ള കുത്തകാവകാശം സംസിദ്ധമായി ഏതൊക്കെ പുസ്തകങ്ങൾ ആണ് കമ്പനിയിൽ അച്ചടിക്കുന്നത് എന്ന് അറിയുന്നതിനു വേണ്ടി അവർ ഒരു രജിസ്റ്റർ സൂക്ഷിക്കാൻ തുടങ്ങി അച്ചടിക്കുന്ന പുസ്തകങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയ ഒരു രജിസ്റ്റർ അങ്ങനെ വന്നപ്പോൾ ഈ കമ്പനി അല്ലാതെ വേറെ ആര് അച്ചടിക്കുന്ന പുസ്തകം ആയാലും അതിനെയെല്ലാം ഇൻഫ്രിഞ്ജിംഗ് ആയിട്ട് കണക്കാക്കാൻ തുടങ്ങി അതായത് ഈ കമ്പനിയിൽ അല്ലാതെ അച്ചടിക്കുന്ന ഗ്രന്ഥങ്ങളെല്ലാം ആധികാരികമല്ലാത്തതായി അല്ലെങ്കിൽ അനുവാദമില്ലാത്തതായി കരുതാൻ തുടങ്ങി ഈ ഒരു സംഭവത്തിൽ രജിസ്ട്രേഷൻറെ ആദ്യത്തെ തെളിവ് നമ്മൾ കാണുകയാണ് അതായത് സ്റ്റേഷനേഴ്സ് കമ്പനി തങ്ങൾ അച്ചടിക്കുന്ന പുസ്തകങ്ങളുടെ ഒരു രജിസ്റ്റർ സൂക്ഷിക്കുന്നു കമ്പനിയുടെ അംഗങ്ങൾക്ക് പുസ്തകങ്ങൾ അച്ചടിക്കാനുള്ള ഒരു സ്ഥിരമായ അഥവാ ശാശ്വതമായ അവകാശമുണ്ടായിരുന്നു സ്റ്റേഷനേഴ്സ് കമ്പനിയിലെ അംഗങ്ങൾക്ക് പുസ്തകങ്ങൾ അച്ചടിക്കാനുള്ള അവകാശം ഉണ്ടായപ്പോൾ തന്നെ കോപ്പിറൈറ്റ് എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നു അതിലൂടെ കൂടുതൽ കോപ്പികൾ ഉണ്ടാക്കാനുള്ള അവകാശം ലഭിച്ചു അപ്പോൾ കോപ്പിറൈറ്റ് എന്ന വാക്ക് ഉരുത്തിരിഞ്ഞുവന്നത് സ്റ്റേഷനേഴ്സ് കമ്പനിയിലെ അംഗങ്ങൾക്ക് അച്ചടിക്കാനുള്ള അവകാശം ലഭിച്ചതുമായി ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും തുടക്കത്തിൽ കമ്പനിയിലെ അംഗങ്ങൾക്ക് പുസ്തകം അച്ചടിക്കാനുള്ള അവകാശം ശാശ്വതം ആയിരുന്നു അവർക്ക് അവരുടെ കമ്പനിയിൽ അച്ചടിക്കാത്ത അല്ലെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ അച്ചടിച്ച പുസ്തകങ്ങൾ കണ്ടു കെട്ടുന്നതിനുള്ള അവകാശവും ഉണ്ടായിരുന്നു ആധികാരികമല്ലാതെ അച്ചടിച്ച പുസ്തകങ്ങൾ കണ്ടുകെട്ടാൻ സാധിക്കുന്നു എന്ന് പറയുന്നിടത്ത് കോപ്പിറൈറ്റ് നിയമ വ്യവസ്ഥയിൽ ഒരു വിധത്തിലുള്ള എൻഫോഴ്സ്മെൻറ് കാണുവാൻ നമുക്ക് സാധിക്കും ഇൻഫ്രിൻജിംഗ് വർക്ക് കണ്ടുകെട്ടാൻ സാധിക്കുക എന്ന് പറയുന്നത് ആധുനിക കാലത്തെ ഒരു പരിഹാരമാണ് ഈ നിയമം കൊണ്ടുവന്നു എന്നിരിക്കിലും പൈറസി തഴച്ചു വളരുകയാണ് ഉണ്ടായത് അതിനുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അച്ചടിയുടെ സാങ്കേതികവിദ്യ അത്രയ്ക്ക് വളർന്നതുകൊണ്ട് അച്ചടിക്കുക എന്നത് വളരെയധികം എളുപ്പമായി തീർന്നതുകൊണ്ട് പൈറസി തഴച്ചു വളരുകയാണുണ്ടായത് പൈറസിയെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി 1709 ൽ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഏയ്ൻ എന്ന ഒരു നിയമം കൊണ്ടുവരികയുണ്ടായി ഇതാണ് ഇംഗ്ലണ്ടിൽ നിലവിൽ വന്ന ആദ്യത്തെ സ്റ്റാറ്റ്യൂട്ട് ഇതു തന്നെയാണ് ആധുനിക പകർപ്പവകാശനിയമത്തിലേക്ക് ചൂണ്ടുപലകയായി തീർന്നതും സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഏയ്ൻ വാദിക്കുന്നത് ഇങ്ങനെയാണ് പകർപ്പവകാശം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു സ്വത്തവകാശം തന്നെയാണ് വീടിന്മേലോ ഭൂമിയിന്മേലോ ഒരാൾക്കുള്ള അവകാശം പോലെ തന്നെ അവരുടെ ഈ അവകാശം സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ നിർമാതാക്കളും ഗ്രന്ഥകാരന്മാരും വളരെയധികം സഹിക്കേണ്ടിവരും സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഏയ്ൻ ഇപ്രകാരമാണ് സൂചിപ്പിക്കുന്നത് ഗ്രന്ഥകാരന്മാരുടെയും നിർമാതാക്കളുടെയും പകർപ്പവകാശം സംരക്ഷിക്കുന്നില്ലെങ്കിൽ അത് അവർക്ക് ഹാനികരമായി തീരും പലപ്പോഴും അവരെയും അവരുടെ കുടുംബത്തെയും നശിപ്പിക്കുക തന്നെ ചെയ്യും സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഏയ്ൻ അതിൻറെ അവതാരികയിൽ വിവരങ്ങളുടെ വിതരണത്തെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് അത് ഇങ്ങനെ പറയുന്നു പഠനത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യത്തെ പകർപ്പവകാശ നിയമം നിലവിൽ വരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് നിർമാതാക്കളുടെ അവകാശത്തെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് മാത്രമല്ല സ്റ്റാറ്റ്യൂട്ട് ജാഗ്രത കാണിക്കുന്നത് മറിച്ച് വിവരങ്ങൾ വിതരണം ചെയ്യപ്പെടേണ്ടതിനെക്കുറിച്ചും നിലപാടുകൾ എടുക്കുന്നുണ്ട് സ്റ്റാറ്റ്യൂട്ടിൻറെ അവതാരികയിൽ പഠനം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് അവകാശത്തിൻറെ കാലപരിധി 14 വർഷമായിരുന്നു ഈ പതിനാല് വർഷം കോപ്പി റൈറ്റ് ഹോൾഡർക്ക് മാത്രമാണ് അച്ചടിക്കുന്നതിനുള്ള അവകാശമുണ്ടായിരുന്നത് 14 ആം വർഷത്തിൻറെ അവസാനത്തിലും കോപ്പിറൈറ്റ് ഓണർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മറ്റൊരു 14 വർഷത്തേക്ക് കൂടി നീട്ടി എടുക്കാവുന്നതാണ് തുടക്കത്തിൽ 14 വർഷം പിന്നീട് അത് 14 വർഷത്തേക്ക് കൂടി നീട്ടി എടുക്കാം കാലങ്ങൾ കുറെ കഴിഞ്ഞ് പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്നെ കോപ്പിറൈറ്റ് എന്ന പദം പലതരത്തിലുള്ള വർക്കുകളെ കോപ്പിറൈറ്റ് നിയമത്തിൻറെ വ്യാപ്തിക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി എക്സ്കളൂസിവിറ്റി എന്ന പദവും വിശാലമാക്കി സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഏയ്ൻ പ്രചോദനം സ്വീകരിച്ചുകൊണ്ടാണ് യു എസ് കോപ്പി റൈറ്റ് ആക്ട് 1790 നിലവിൽ വരുന്നത് സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഏയ്ൻ ൻറെ പദാനുപദമായ പുനർനിർമ്മാണം ആണ് യു എസ് കോപ്പി റൈറ്റ് ആക്ട് 1790 എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇംഗ്ലണ്ടിൽ രൂപംകൊണ്ട ഈ നിയമത്തിന് സമാനമായ നിയമസംഹിത ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ അനുധാവനം ചെയ്യുന്നതാണ് നമ്മൾ കാണുക അച്ചടിവിദ്യ ജനകീയമായതോടെ ഒറിജിനൽ വർക്കുകളെ സംരക്ഷിക്കുവാൻ കോപ്പിറൈറ്റ് ആവശ്യമായി വന്നു സ്റ്റേഷനേഴ്സ് കമ്പനിക്ക് രാജാവ് പുസ്തകങ്ങൾ അച്ചടിക്കുന്നതിനുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ് അനുവദിച്ച നൽകുകയും മാത്രമല്ല അവരുടെ അനുവാദമില്ലാതെ അച്ചടിക്കുന്ന പുസ്തകങ്ങൾ അന്വേഷിച്ച് കണ്ടുകെട്ടി അവ നശിപ്പിക്കാനുള്ള അവകാശം നൽകുകയും ചെയ്തു ഈ അവകാശത്തെ നമ്മൾ പവർ ഓഫ് കോൺഫിസ്ക്കേഷൻ എന്ന് പറയുന്നു പകർപ്പാവകാശം ഒരു അന്താരാഷ്ട്ര അവകാശമായി ഉരുത്തിരിഞ്ഞു വരുന്നത് വളരെ സാവകാശവും ഉഭയകക്ഷി ക്രമീകരണങ്ങളിലൂടെയുമാണ് അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പര സമ്മതത്തോടെ ഒരു നിയതമായ ക്രമീകരണത്തിലേക്ക് വരികയാണ് ഇരുരാജ്യങ്ങളുടെയും കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ പരസ്പരം അംഗീകരിക്കാമെന്ന് ഈയൊരു പ്രക്രിയ സാവകാശം അന്താരാഷ്ട്ര ക്രമീകരണത്തിലേക്ക് നയിച്ചു 1886 നടന്ന ബേൺ കൺവൻഷൻ ആണ് അന്താരാഷ്ട്രതലത്തിൽ കോപ്പിറൈറ്റ് മേഖലയിൽ ഉണ്ടായ ആദ്യത്തെ ഒരു ക്രമീകരണം ബേൺ കൺവൻഷൻറെ ഏറ്റവും പ്രധാനമായ ഫോക്കസ് എന്നു പറയുന്നത് വിവിധ അംഗരാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു ഐകരൂപ്യം കൊണ്ടുവരിക എന്നതായിരുന്നു ബേൺ കൺവൻഷൻ തുടക്കത്തിൽ കലാപരവും സാഹിത്യപരവുമായ വർക്കുകൾ മാത്രം ആയിരുന്നു കോപ്പിറൈറ്റ് നിയമത്തിൻറെ പരിധിയിൽ കൊണ്ടു വന്നിരുന്നത് എന്നാൽ പിന്നീടുള്ള വർഷങ്ങളിൽ പുതിയ രൂപത്തിലുള്ള കോപ്പിറൈറ്റ് വർക്കുകളും കൂടെ കൂട്ടിച്ചേർക്കുകയുണ്ടായി നാഷണൽ ട്രീറ്റ്മെൻറ് പ്രിൻസിപ്പിളിനെ ആണ് കൺവെൻഷൻ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് നാഷണൽ ട്രീറ്റ്മെൻറ് പ്രിൻസിപ്പിൾ പ്രകാരം വിദേശികൾക്കും നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ പൌരന്മാരെ പോലെ തന്നെയുള്ള ഒരു പരിഗണന നൽകേണ്ടതുണ്ട് നാഷണൽ ട്രീറ്റ്മെൻറ് പ്രിൻസിപ്പിൾ പ്രകാരം വിദേശരാജ്യങ്ങളിൽ കോപ്പിറൈറ്റ് ചെയ്ത വർക്കുകളുടെ നിർമ്മാതാക്കൾക്ക് ഒരു പ്രത്യേക രാജ്യത്തെ പൌരന്മാർക്ക് ആ രാജ്യം നൽകുന്ന സംരക്ഷണത്തിന് തുല്യമായ സംരക്ഷണത്തിനുള്ള അടയാളം നൽകുന്നു എന്ന് വെച്ചാൽ വിദേശരാജ്യങ്ങളിലെ വർക്കുകളും സ്വദേശീയമായ വർക്കുകളെ പോലെ കരുതേണ്ടിയിരിക്കുന്നു ബേൺ കൺവെൻഷൻ ആണ് കോപ്പിറൈറ്റുകളുടെ കാലാവധി നിർമ്മാതാവിൻറെ ജീവിതകാലവും അതിനോട് കൂടെ 50 വർഷവും എന്നാക്കി നിജപ്പെടുത്തിയത് അതുപ്രകാരം കോപ്പി റൈറ്റ് അവകാശം നിർമ്മാതാവിൻറെ ജീവിതകാലം മുഴുവനും അതിനുശേഷം 50 വർഷവും ലഭിക്കുന്നു അതായത് എന്നാണോ നിർമ്മാതാവ് മരിക്കുന്നത് അന്നുമുതൽ 50 വർഷം കോപ്പിറൈറ്റ് അവകാശം സ്വയമേവ നിലവിൽ വരുന്നതാണ് ഒരു വർക്ക് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ തന്നെ സംരക്ഷണം നൽകുകയാണ് ബേൺ കൺവൻഷനു ശേഷം നിലവിൽ വന്ന രണ്ടാമത്തെ അന്താരാഷ്ട്ര ക്രമീകരണമാണ് 1961 റോം കൺവെൻഷൻ ബേൺ കൺവൻഷൻറെ പ്രധാന കേന്ദ്രബിന്ദു കലാസൃഷ്ടികളുടെ നിർമാതാക്കൾ ആയിരുന്നുവെങ്കിൽ റോം കൺവെൻഷൻ അതിനനുബന്ധമായ അവകാശങ്ങളിലേക്കാണ് അതായത് നെയ്ബറിങ് റൈറ്റ്സിലേക്കാണ് ശ്രദ്ധ തിരിച്ചത് നെയ്ബറിങ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഗ്രന്ഥകർത്താക്കളുടെ അല്ലെങ്കിൽ നിർമാതാക്കളുടെ അവകാശങ്ങൾക്കപ്പുറം മറ്റുള്ള ആളുകളുടെ അവകാശങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത് ബേൺ കൺവെൻഷൻ ഉൾകൊള്ളാത്ത അല്ലെങ്കിൽ പരിഗണിക്കാത്ത ശബ്ദ ചിത്രീകരണത്തിനുള്ള ഫോണോ ഗ്രാമങ്ങളുടെ നിർമ്മാതാക്കൾ കലാ പ്രകടനം നടത്തുന്നവർ സംപ്രേഷണം ചെയ്യുന്നവർ എന്നു തുടങ്ങിയ ആളുകളെ റോം കൺവെൻഷൻ പരിഗണിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു പകർപ്പവകാശ നിയമത്തിൻറെ വളരെ സാവധാനത്തിലുള്ള വികാസമാണ് നമ്മൾ ഇവിടെ കാണുന്നത് പകർപ്പവകാശം എന്നത് പരമ്പരാഗതമായി നിർമ്മാതാക്കളുടെയും ഗ്രന്ഥകർത്താക്കളുടെയും അവകാശം ആയിട്ടാണ് പരമ്പരാഗതമായി പരിഗണിച്ച് വന്നിരുന്നത് ഇപ്പോൾ നമ്മൾ അത് ശബ്ദ ചിത്രീകരണം നടത്തുന്നവരേയും പ്രൊഡ്യൂസേഴ്സിനേയും ഫോണോഗ്രാഫർമാരേയും കോപ്പിറൈറ്റ് ചെയ്ത വർക്കുകൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നവരെയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് കാണുന്നത് അതായത് പകർപ്പവകാശനിയമം ഫോണോഗ്രാഫേഴ്സ് പെർഫോമേഴ്സ്സ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഇവരിലേക്കെല്ലാവരിലേക്കും എക്സ്റ്റൻൻറ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതി ഇതിനുശേഷം വന്നതാണ് 1994ലെ ട്രിപ്സ് കരാർ ഈ ട്രിപ്സ് കരാറാണ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ പ്രിൻസിപ്പിളും നാഷണൽ ട്രീറ്റ്മെൻറ് പ്രിൻസിപ്പിളും കൊണ്ടുവന്നത് അത് പ്രകാരം രാജ്യങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ വേർതിരിവ് അല്ലെങ്കിൽ തിരിച്ചു വ്യത്യാസം കാണിക്കാൻ സാധിക്കുകയില്ല എ എന്ന രാജ്യം ബി എന്ന രാജ്യത്തിന് എന്തെങ്കിലും മുൻഗണനാപ്രകാരമുള്ള ഇടപെടലോ പരിചരണമോ നൽകുന്നുണ്ടെങ്കിൽ അതേ രീതിയിലുള്ള ഒരു ഇടപെടലും പരിചരണവും സി എന്ന രാജ്യത്തിനും ഡി എന്ന രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും നൽകേണ്ടതുണ്ട് മോസ്റ്റ് ഫേവേർഡ് നേഷൻ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് ഇപ്രകാരമാണ് രാജ്യങ്ങൾക്കുള്ളിൽ തിരിച്ചു വ്യത്യാസം കാണിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനു മാത്രമായി ഒരു പ്രത്യേകമായ പെരുമാറ്റച്ചട്ടമോ ഇടപെടൽ രീതികളോ പാടില്ല മോസ്റ്റ് ഫേവേർഡ് നേഷൻ പ്രിൻസിപ്പിൾ എല്ലാ രാജ്യങ്ങളെയും ഒരേപോലെ പരിഗണിക്കാനും ഒരേപോലെ ഇടപെടാനും ആണ് അനുവദിക്കുന്നത് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഒരേ കോപ്പിറൈറ് നിയമവ്യവസ്ഥ നിലനിൽക്കണമെന്നും അനുശാസിക്കുന്നു ട്രിപ്സ് കരാറിനു ശേഷം നമുക്ക് രണ്ട് വേൾഡ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ട്രീറ്റികളുണ്ട് വൈപോ ട്രീറ്റികൾ ഒന്ന് വൈപോ കോപ്പിറൈറ്റ് ട്രീറ്റി രണ്ട് ഡബ്ലിയു പി പി ടി 1996 എന്ന പേരിൽ അറിയപ്പെടുന്ന വൈപോ പെർഫോമൻസ് ആൻഡ് ഫോണോഗ്രാം ട്രീറ്റി 1994 നിലവിൽ വന്ന ട്രിപ്സ് കരാർ ബേൺ കൺവെൻഷനിലെ ഒന്നു മുതൽ 21 വരെയുള്ള ആർട്ടിക്കിളുകൾ നടപ്പിൽ വരുത്തി എന്താണോ ആർട്ടിക്കിളുകളിൽ ഉണ്ടായിരുന്നത് അത് അപ്പാടെ അങ്ങനെതന്നെ സ്വീകരിച്ചു ഇതുമൂലം ഒരു പ്രയോജനം ഉണ്ടായി അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഒപ്പുവെച്ചു എന്നതിൻറെ പേരിൽ ബേൺ കൺവെൻഷനിൽ അംഗങ്ങളാകാതിരുന്ന രാജ്യങ്ങൾ ട്രിപ്സ് കരാറിലെ അംഗങ്ങൾ ആവുകയും അതുമൂലം അവരിപ്പോൾ ബേൺ കൺവെൻഷൻ അനുസരിക്കുകയും ചെയ്യുന്നു കാരണം ട്രിപ്സ് കരാർ ഇപ്പോൾ ബേൺ കൺവെൻഷനെ സ്വീകരിച്ചിരിക്കുകയാണ് അതിലെ 1 മുതൽ 21 വരെയുള്ള ആർട്ടിക്കിളുകൾ അതേപടി സ്വീകരിച്ചിരിക്കുകയാണ് മാത്രമല്ല ബേൺ കൺവെൻഷൻ അനുവർത്തിക്കുന്നതിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻറെ മുൻപാകെ കൊണ്ടു വരാവുന്നതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് വളരെ ശക്തവും ഫലപ്രദവുമായ തർക്ക പരിഹാര മെക്കാനിസം ഉണ്ട് മുൻകാലങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം ബേൺ കൺവൻഷൻ അനുവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു തർക്കവിഷയമായി ആരുടെയെങ്കിലും മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ബേൺ കൺവെൻഷനിലെ വ്യവസ്ഥകൾ ട്രിപ്സ് കരാറിനോടുകൂടെ കൂട്ടിച്ചേർത്തപ്പോൾ രാജ്യങ്ങൾക്ക് ഞങ്ങളുടെ തർക്കങ്ങൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻറെ തർക്ക പരിഹാര സെല്ല് മുൻപാകെ അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ട്രിപ്പ് കരാർ റോം കൺവെൻഷനേയും കുട്ടി ചേർക്കുന്നുണ്ട് എന്നാൽ അത് നേരിട്ടല്ല ആർട്ടിക്കിൾ14 വഴി പരോക്ഷമായിട്ടാണ് ചെയ്യുന്നത് റോം കൺവെൻഷൻറെ സത്ത എന്ന് പറയുന്നത് അതിലൂടെ പെർഫോമേഴ്സിനേയും പ്രൊഡ്യൂസേഴ്സിനേയും കോപ്പിറൈറ്റ് നിയമത്തിൻറെ പരിധിക്കുള്ളിലേക്ക് ട്രിപ്സ് കരാറിൻറെ ആർട്ടിക്കിൾ14 വഴി കൊണ്ടുവന്നു എന്നതാണ് ട്രിപ്സ് കരാർ ആകട്ടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെ കൂടി കോപ്പി റൈറ്റ് നിയമത്തിൻറെ സംരക്ഷണം ലഭിക്കുന്നതിലേക്ക് കൂട്ടിച്ചേർക്കുകയുണ്ടായി കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെ ലിറ്റററി വർക്കുകൾ ആയി പരിഗണിക്കണമെന്നും ഡാറ്റയോ ഡാറ്റാബേസോ സമാഹരിക്കുന്നതിനെ ബുദ്ധിപരമായ നിർമ്മിതിയായി പരിഗണിക്കണമെന്നും അനുശാസിക്കുന്നു അങ്ങനെയാകുമ്പോൾ ബുദ്ധിപരമായ നിർമ്മിതികളുടെ കൂട്ടത്തിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളും ഡാറ്റാബേസും കൂടി ഉൾപ്പെടുന്നു വൈപോ കോപ്പിറൈറ്റ് ട്രീറ്റി എന്നത് ബേൺ കൺവെൻഷനു കീഴിലുള്ള ഒരു പ്രത്യേക ക്രമീകരണമാണ് അത് പ്രകാരം ഡിജിറ്റൽ എൻവിയോൺമെൻറിലുള്ള വർക്കുകൾ സംരക്ഷിക്കുന്നു ഈ ട്രീറ്റി ഡബ്ലിയു സി ടി എന്ന പേരിലും വിളിക്കപ്പെടുന്നു കോപ്പിറൈറ്റ് വഴി സംരക്ഷിക്കപ്പെടുന്ന രണ്ട് സബ്ജക്റ്റ് മാറ്ററുകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒന്നാമത്തേതാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം രണ്ടാമത്തേത് ഡാറ്റാബേസും ഡാറ്റാബേസിൻറെ സമാഹരണവും 1996ലെ ഡബ്ലിയു സി ടി കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലേക്കും ഡാറ്റാബേസുകളിലേക്കും കൂടി അതിൻറെ സംരക്ഷണത്തെ വ്യാപിപ്പിക്കുന്നു ബേൺ കൺവെൻഷൻ അംഗീകരിച്ച ഗ്രന്ഥകർത്താക്കൾക്കും നിർമ്മാതാക്കൾക്കും നൽകിയ അവകാശങ്ങൾക്ക് പുറമേ വൈപോ കോപ്പിറൈറ്റ് ട്രീറ്റി മറ്റ് മൂന്ന് സെറ്റ് അവകാശങ്ങളെ കൂടി അവതരിപ്പിക്കുന്നുണ്ട് റൈറ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ് ഓഫ് റെന്റ്ൽ കുറച്ച് കൂടെ വിശാലമായ റൈറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു ദ പബ്ലിക് വൈപോ പെർഫോമൻസ് ആൻഡ് ഫോണോഗ്രാംസ് ട്രീറ്റി ഡിജിറ്റൽ എൻവിയോൺമെൻറിലുള്ള രണ്ടു തരം ഗുണഭോക്താക്കളെ പരിചയപ്പെടുത്തുന്നു ആദ്യത്തെ തരം ഗുണഭോക്താക്കൾ പെർഫോമേഴ്സ് ആക്ടേഴ്സ് സിംഗേഴ്സ് മ്യുസിഷ്യൻസ് എന്നിവരാണ് രണ്ടാമത്തെ തരം ഗുണഭോക്താക്കൾ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഫോണോഗ്രാഫ് ശബ്ദ ചിത്രീകരണത്തിന് ഉത്തരവാദിത്വം എടുക്കുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ എന്നിവയാണ് കൃത്യമായും മുഴുവനായും വാചികമായ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട പെർഫോമേഴ്സിൻറെ അവകാശങ്ങളെ ഈ ട്രീറ്റി നിയന്ത്രിക്കുന്നുണ്ട് പെർഫോമേഴ്സിൻറെ അവകാശങ്ങളെ സംബന്ധിച്ച് ട്രീറ്റി പെർഫോമേഴ്സിന് ഫോണോഗ്രാമുകളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള അവരുടെ പ്രകടനങ്ങൾക്ക് സാമ്പത്തിക അവകാശങ്ങൾ അനുവദിക്കുന്നു എന്നാൽ ഓഡിയോ വിഷ്വൽ ഫിക്സേഷന് ഈ അവകാശം അനുവദിക്കുന്നില്ല ഉദാഹരണത്തിന് മോഷൻ പിക്ചേഴ്സ് കാരണം അവയ്ക്ക് പുനർനിർമ്മിതിക്കുള്ള അവകാശം ഉണ്ട് വിതരണത്തിനുള്ള അവകാശമുണ്ട് വാടകക്ക് കൊടുക്കാനുള്ള അവകാശമുണ്ട് ലഭ്യമാക്കാനുള്ള അവകാശമുണ്ട് ഫോണോ ഗ്രാമങ്ങളുടെ നിർമ്മാതാക്കൾക്കും അവരുടെ ഫോണോഗ്രാമുകളിന്മേൽ ചില സാമ്പത്തിക അവകാശങ്ങളുണ്ട് അവർക്ക് അത് പുനർനിർമ്മിക്കുന്നതിനുള്ള അവകാശമുണ്ട് വിതരണത്തിനുള്ള അവകാശമുണ്ട് വാടകക്ക് കൊടുക്കാനുള്ള അവകാശമുണ്ട് ലഭ്യമാക്കാനുള്ള അവകാശമുണ്ട് എന്താണ് കോപ്പിറൈറ്റിനുള്ള യുക്തി എന്തുകൊണ്ടാണ് അവ സംരക്ഷിക്കപ്പെടേണ്ടത് കോപ്പിറൈറ്റ് നിലനിൽക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായ നിർമ്മാണമാണ് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് കാരണം അതുണ്ടാകുന്നത് ബുദ്ധിപരവും ക്രിയാത്മകവും ഭാവാത്മകമായ പരിശ്രമത്തിലൂടെയാണ് ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത് ബുദ്ധിപരമായ പരിശ്രമത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും ആണ് എന്നുള്ളതുകൊണ്ട് അവക്ക് സംരക്ഷണം ആവശ്യമാണ് ഉല്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും നമുക്ക് സംരക്ഷണമുണ്ട് എന്നാൽ ദൃഷ്ടി ഗോചരമല്ലാത്ത സൃഷ്ടിപരമായ അധ്വാനങ്ങൾക്ക് സംരക്ഷണമില്ല അതു തന്നെയാണ് സൃഷ്ടിപരമായ അധ്വാനം മൂലമുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ സംരക്ഷണത്തിനായി കോപ്പിറൈറ്റ് വേണമെന്ന ആവശ്യം ഉയരുന്നതിന് കാരണം കോപ്പിറൈറ്റ് വേണമെന്ന് പറയുന്നതിനുള്ള പിന്നിലുള്ള മറ്റൊരു യുക്തി കോപ്പി ചെയ്യുന്നത് അഥവാ അനുവാദമില്ലാതെ കോപ്പി ചെയ്യുന്നത് കളവിന് തുല്യം ആയിട്ടാണ് പരിഗണിക്കുന്നത് എന്നതാണ് നമ്മൾ പ്ളാജിയറിസം പൈറസി എന്നീ വാക്കുകൾ കണ്ടപ്പോൾ സൂചിപ്പിച്ചു പ്ളാജിയറിസം എന്നത് തട്ടിക്കൊണ്ടുപോകൽ ആണെന്നും അല്ലെങ്കിൽ ആ വാക്ക് തട്ടിക്കൊണ്ടുപോകൽ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത് എന്നും പൈറസി എന്ന വാക്കിനർത്ഥം കളവാണെന്നും അപ്പോൾ മറ്റൊരാളുടെ വർക്ക് കോപ്പി ചെയ്യുന്നത് അഥവാ അനുവാദമില്ലാതെ കോപ്പി ചെയ്യുന്നത് മോഷ്ടിക്കുന്നതിന് തുല്യമാകുന്നു അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റത്തിന് തുല്യമാകുന്നു ഇതാണ് പകർപ്പവകാശ നിയമ വ്യവസ്ഥ ഉണ്ടാകണം എന്ന് പറയുന്നതിന് പിന്നിൽ ഉള്ള മറ്റൊരു ന്യായം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങളുടെ ആവിഷ്കാരത്തെ മറ്റുള്ളവരാൽ മോഷ്ടിക്കപ്പെടുന്നതിൽ നിന്നും സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു മൂന്നാമത്തെ ന്യായമായി പറയുന്നത് അധ്വാനങ്ങളുടെ ഫലങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതാണ് തൊഴിൽ സിദ്ധാന്തം അഥവാ തൊഴിൽ നിയമം അനുശാസിക്കുന്നത് ആരെങ്കിലും ഒരാൾ ഒരു പ്രവർത്തി ചെയ്യുന്നതിന് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് ഒരു സൃഷ്ടി നടത്തുന്നതിന് സമയം ചെലവഴിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഒരു പുസ്തകം എഴുതുന്നതിന് സമയം ചെലവഴിക്കുക യാണെങ്കിൽ അദ്ദേഹം ആ പുസ്തകം എഴുതാൻ ഉപയോഗിച്ച സമയം സമ്മാനിതമാകാതെ പോകരുത് എന്നാണ് ഒരു ഗ്രന്ഥകാരൻറെ പുസ്തകം എഴുതുക എന്ന ആ സൃഷ്ടി കർമ്മത്തിന് തക്ക പ്രതിഫലം നൽകുകയെന്നാൽ അത് മനുഷ്യരുടെ സൃഷ്ടിപരമായ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് കോപ്പി റൈറ്റ് പ്രൊട്ടക്ഷൻ നൽകുകവഴി നിർമ്മാതാക്കൾക്ക് ഇനിയും കൂടുതൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻനുള്ള ഒരു പ്രോത്സാഹനം നൽകുകയാണ് ചെയ്യുന്നത് അതുവഴി സമൂഹത്തിൻറെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നു സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് അതേസമയം പകർപ്പവകാശ സംരക്ഷണം വളരെ കർക്കശമായി നടപ്പിൽ വരുത്തുകയാണെങ്കിൽ അതും സമൂഹത്തിൻറെ പുരോഗതിയെ ഹാനികരമായി ബാധിച്ചേക്കാം അതുകൊണ്ടാണ് കോപ്പിറൈറ്റ് നിയമവ്യവസ്ഥയിൽ വിവിധങ്ങളായ എക്സെംഷൻസും ലിമിറ്റേഷൻസും ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടു സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഏയ്ൻ അതുപ്രകാരം നിർമാതാക്കളുടെ അവകാശം സംരക്ഷിക്കേണ്ടതിൻറെ ആവശ്യകതയെ കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അതിൻറെ ആമുഖത്തിൽ വിവരങ്ങൾ വിതരണം ചെയ്യപ്പെടേണ്ടതാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് കോപ്പിറൈറ്റ് നിയമവ്യവസ്ഥ നിർമ്മാതാക്കളുടെ അവകാശത്തെ സംരക്ഷിക്കുന്നതിനോടുകൂടി തന്നെ ഉപഭോക്താക്കളുടെ അവകാശങ്ങളെയും സംരക്ഷിക്കുന്നതിനും ഇവയ്ക്കു രണ്ടിനുമിടയിൽ ഒരു സന്തുലനം കാത്തുസൂക്ഷിക്കുന്നതിനും ശ്രദ്ധിക്കുന്നുണ്ട്